നമുക്ക് FDTD 2D ഫോർമുലേഷൻ തുടരാം സ്പേസ് നെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നാണ് നമ്മൾ ഇതുവരെ കണ്ടത് സ്പേസ് സ്പേഷിയൽ ഡെറിവേറ്റീവ്സ് നെ ഫൈനൈറ്റ് ഡിഫറെൻസസ്കൊണ്ട് റീപ്ലേസ് ചെയ്തു സ്റ്റെൻസിലിലൂടെ 123 ഇക്വേഷൻസ് നോക്കിയാൽ നമ്മൾ വലത് വശം ആണ് കൈകാര്യം ചെയ്തത് ഇടത് വശമാണ് അടുത്തത് വിദ്യാർത്ഥി ഇടത് വശം നമുക്ക് അതിലേക്ക് പോകാം ടൈം സ്റ്റെപ്പിങ്ങിലേക്ക് lപോവുന്നതിനു മുമ്പ് ഞാൻ നിങ്ങൾക്ക് ™ പോളറൈസേഷന്റെസ്റ്റെൻസിൽ ഞാൻ കാണിച്ചു തരാം TE പോളറൈസേഷനെ കുറിച്ചാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത് എന്താണ് ™ ലെ വാരിയബിളുകൾ ഇവയാണ് 3 വാരിയബിളുകൾ ലോജിക് എന്താണെന്ന് നമ്മൾ കണ്ടതാണ്ഈ 3 വാരിയബിളുകളെയും ഹാഫ് ഗ്രിഡ്കൊണ്ട് സ്റ്റാഗർ ചെയ്യണം എല്ലാം സ്പേസിൽ ഒരേ പോയിന്റിൽ ആയിരിക്കാരുത് അവ സ്റ്റാഗർ ചെയ്തിരിക്കണം അതാണ് ഒരു പരിഗണന രണ്ടാമത്തെ പരിഗണന എന്താണെന്ന് വെച്ചാൽ നമുക്ക് E ഗ്രിഡ് ലൈനിൽകിട്ടണം എന്നാൽ നമുക്ക് ബൌണ്ടറി കണ്ടിഷൻസ് എളുപ്പത്തിൽ നടപ്പിലാക്കാൻ കഴിയും ഈ പരിഗണനകൾ ™ സ്റ്റെൻസിൽ ന് വേണ്ടിയുള്ള സാദാരണ ചോയ്സ് ആണ് ഇത് നിങ്ങളുടെ ആവാം മധ്യത്തിൽ ആണ് നെ നിങ്ങൾ എവിടെ ഇടും അതിനെ നമുക്ക് സെല്ലിന്റെ മധ്യത്തിൽ ഇടാം അപ്പോൾ പ്രശനം ബൌണ്ടറി കണ്ടിഷൻസ് നടപ്പിലാക്കേണ്ടതാണ് ഗ്രിഡ് ന്റെ കോർണറിൽഇട്ടാൽ ഇത് മറ്റു വാരിയബിൾസിൽ നിന്നും പകുതി ഗ്രിഡ് ദൂരെ ആയിരിക്കും ഇത് ബൌണ്ടറി കണ്ടിഷൻസ് നടപ്പിലാക്കാൻ സഹായകരം ആയിരിക്കും എനിക്ക് ഇത് സെല്ലിന്റെ മധ്യത്തിലും ഇടാം ഒരു പ്രശനവും ഇല്ല അത് സ്ഥിരത ഉള്ളതാവും ഇതാണ് ™ സ്റ്റെൻസിൽ™ stencil ആവശ്യം വരുമ്പോൾ നമ്മൾ ഇത് പരാമർശിക്കും ഇപ്പോൾ നമുക്ക് ടൈം സ്റ്റെപ്പിങ് പാർട്ടിലേക്ക് തിരിച്ചു പോവാം ടൈം സ്റ്റെപ്പിങ്ങിൽ എന്താണ് ചെയ്യുന്നത് ടൈം ഡെറിവേറ്റീവ്നെ ഫൈനൈറ്റ് ഡിഫറെൻസെസ് കൊണ്ട് റീപ്ലേസ് ചെയ്യും ടൈം ന്റെ നൊറ്റേഷൻ എന്താണ് സൂപ്പർസ്ക്രിപ്റ്റ് ആയിട്ടാണ് നമ്മൾ അത് എഴുതുന്നത് അതായത് ഇതാണ് നമ്മുടെ ടൈം ഇണ്ടെക്സ് നമ്മൾ പറഞ്ഞു സ്പേസിൽ വാരിയബിൾസ്പകുതി ഗ്രിഡ്grid ഉപയോഗിച്ച് സ്റ്റാഗർ ചെയ്തു എന്ന് ടൈമിൽ നമ്മൾ എന്ത് ചെയ്യണം അത് തന്നെയാണോ ചെയ്യേണ്ടത് ഈ മെത്തോഡുകളിൽ നമ്മൾ സ്പേസിനെയും ടൈമിനെയും ഡിസ്ക്രിടൈസ് ചെയ്യുന്നു അതിനാൽ സ്റ്റെൻസിലിൽ ള്ളത് പോലെ ഉം ഉണ്ടാവും ൽ തന്നെ ഈ വാരിയബിൾസ് അപ്ഡേറ്റ് ചെയ്യപ്പെടുമോ എന്ന് ഒരു ചോദ്യം ഉണ്ടാവാം അഥവാ ഏതെങ്കിലും സ്റ്റാഗറിങ്ങ് നടക്കുമോ സ്പേസിൽ ചെയ്ത അതേ ലോജിക് തന്നെയാണ് ഇവിടെയുംസ്പേസിന് ടൈമിനേക്കാളും പ്രത്യേക പരിഗണന ഒന്നുമില്ല അതിനാൽ സ്പേസിൽ ചെയ്തത് എന്തൊക്കെയാണ് അത് തന്നെ ടൈമിലും ചെയ്യണം ഇവയെയും നമ്മൾ പകുതി ഗ്രിഡിൽ സ്റ്റാഗർ ചെയ്യണം ഇവിടെ ഇതിനർത്ഥം എന്നാണ് രണ്ടും മാക്സ്വെൽസ് ഇക്വേഷൻ Maxwells equation ആണ് എന്താണ് സംഭവിക്കുക എന്ന് എഴുതി നോക്കാം നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ എടുക്കാം ആണ് നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ രണ്ടാമത്തെ ഇക്വേഷനും മീഡിയത്തെ കുറിച്ച് അതേ അനുമാനങ്ങൾ ഉണ്ടാക്കും ലിനീയർഹോമോജീനസ്അങ്ങനെ TM സ്റ്റെൻസിലിൽTM സ്റ്റെൻസിൽ നെ സ്പേസിലെ ഒരു പോയിന്റിൽ ആണ് വിലയിരുത്തുന്നത് എന്താണ് സ്പേസിലെ അടുത്ത പോയിന്റ് ആണോ അഥവാ ആണോ എവിടെ ആയിരിക്കും ന്റെ അടുത്ത വിലയിരുത്തൽ അതായത് ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഈ തൊട്ടടുത്തുള്ള പോയിന്റിൽ E ൽ ഇലക്ട്രിക് ഫീൽഡ് ഡെറിവേറ്റീവ്എന്തായിരിക്കും ആണോ ആണോ ആയിരിക്കും അതേ ലോജിക് തന്നെയാണ് ഞാൻ ഇവിടെയും പ്രയോഗിക്കുന്നത് E വിലയിരുത്തുന്നത് ഇന്റിജർ പോയന്റുകളിൽആണെന്ന് നമുക്ക് പറയാം അതായത് ഇന്റിജർ ടൈം ഗ്രിഡ്സ് ഞാൻ ഇപ്പോൾ വെക്ടർ ഫോമിൽ ആണ് എഴുതുന്നത് ഇലക്ട്രിക് ഫീൽഡ് ന് വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്തത് ഇനി മാഗ്നെറ്റിക് ഫീൽഡ് ഏത് ടൈമിൽ വിലയിരുത്തും nആയിരിക്കുമോ അതായത് ഞാൻ ചോദിക്കുന്നത് ഇവിടെ സൂപ്പർസ്ക്രിപ്റ്റ് ആയിട്ട് എന്താണ് എഴുതേണ്ടത്n ആണോ ആണോ അഥവാ വേറെ എന്തെങ്കിലും ആണോ പകുതി ഗ്രിഡ് പോയിന്റ് ആണ് അത്കൊണ്ട് ഇത് ആയിരിക്കും എന്താണ് ഇവിടുത്തെ ലോജിക് ഞാൻ ടയിലർ സീരീസിലേക്ക് നോക്കിയാൽ ഇത് കിട്ടും ഇവ രണ്ടിന്റെയും ആവറേജ് ആണിത് അത് പോലെ ഇടത് വശത്തു എനിക്ക് n 12 ഉണ്ട് ഇത് എന്തിന്റെ അപ്രോക്സിമേഷൻ ആണ് എന്തായിരിക്കും രണ്ടാമത്തെ ഇക്വേഷൻ സൂചിപ്പിക്കുന്നത് വാക്വത്തിൽ നമ്മുക്ക് ഓരോന്നോരോന്നായി ഇക്വേഷൻസ് വീണ്ടും എഴുതാം എല്ലാ ടൈം ഇൻഡിസസിലും time indices ഒന്നാമത്തെ ഇക്വേഷനിലെ ദൂരെയുള്ള ടൈം ഇണ്ടെക്സ് ഏതാണ് എനിക്ക് ഈ ഇക്വേഷനിലെ ടൈമിലേക്ക് പോവാം ഇന്റിജർ ടൈം ഗ്രിഡിൽ വെച്ച് Eനെ മൂല്യനിർണ്ണയം നടത്തിയത് ഒരു ചോയ്സ് ആണ് E നെ മൂല്യനിർണ്ണയം നടത്തിയത് ഹാഫ് ഇന്റിജർ ടൈമിൽ ആണെന്ന് എനിക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു എവിടെ വെച്ചാണ് E മൂല്യനിർണ്ണയം നടത്തിയത് എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ H യന്ത്രികമായി പകുതി ഗ്രിഡിനാൽ സ്റ്റാഗർ ആവും ഇന്റിജർ ടൈം ഇൻസ്റ്റൻസിൽ എനിക്ക് E യെ മൂല്യനിർണ്ണയം ചെയ്യാൻ കഴിഞ്ഞു ഇനി എനിക്ക് E യുടെ മൂല്യം ഹാഫ് ടൈം ഇന്റിജറിൽ കിട്ടണം ഞാൻ എന്ത് ചെയ്യണം മുമ്പത്തെ പോലെ ആവറേജ് എടുക്കുക വേറെ ചില പോയിന്റിൽ ഇന്റർപോളേറ്റ് ചെയ്യുക അങ്ങനെ ചോയ്സ് നിങ്ങളുടേതാണ് ഇത് ഒന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളിൽ തീരുമാനം ആവും അതാണ് ഞാൻ പറഞ്ഞത് ഇത് എന്റെ ചോയ്സ് ആണ് ഭൌതികശാസ്ത്രത്തിൽ നിന്നോ ഗണിതശാസ്ത്രത്തിൽ നിന്നോ വന്നതല്ല കൺവെൻഷൻ ആണ് ഒരു തവണ തീരുമാനിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളതൊക്കെ സ്ഥിരത ഉള്ളതാവും എനിക്ക് പറയാമായിരുന്നു ഇനി ചെയ്യാൻ ഞാൻ നിർബന്ധിതൻ ആവുന്നു ഇനി നമുക്ക് ഇവിടെ ഞാൻ എഴുതിയ രണ്ട് ഇക്വേഷനുകൾ നോക്കാം FDTD യുടെ അടിസ്ഥാന തത്വം എന്തെന്നാൽഒരു തവണ ഗ്രിഡ് ഉണ്ടാക്കിയാൽ സ്പേസിലെയും ടൈമിലെയും ഫീൽഡ് കണ്ടുപിടിക്കാൻ ശ്രമിക്കും സ്പേസ് സ്റ്റെപ്പിങ്ങുംടൈം സ്റ്റെപ്പിങ്ങും ഫീൽഡിന്റെ മുമ്പത്തെ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ എനിക്ക് അടുത്ത മൂല്യങ്ങൾ കിട്ടുന്നു ഞാൻ ഒരു ടൈം ലൈൻ ഉണ്ടാക്കിയാൽടൈം ആക്സിസ്ഡോട്ടെഡ് ആയാണ് ഉണ്ടാക്കുന്നത് ഇവിടെയുള്ള ഈ പോയിന്റ് നെ എന്ന് പറയാം വേറൊരു പോയിന്റ് കൂടി ഇടാം അതാണ് ടൈം പുരോഗമിക്കുന്നത് പോലെയാണ് ഇത് അത്പോലെ എവിടെയാണ് ഞാൻ മാഗ്നെറ്റിക് ഫീൽഡ് മൂല്യങ്ങൾ വരക്കേണ്ടത് ഇവയുടെ ഇടയിൽ കാരണം ഇത് ഒരു പകുതി ഗ്രിഡ് ആണ് ഇത് ഞാൻ ഇങ്ങനെ വരക്കും ഇതാണ് ഇത് ഉം ഇനി നമുക്ക് ഇക്വേഷൻ മൂന്നും നാലും നോക്കാം എന്താണ് ഇക്വേഷൻ 3 പറയുന്നത് ഇതിനെ കുറച്ചു നല്ലോണം ശ്രദ്ധിക്കാം എനിക്ക് പഴയതൊക്കെ അറിയാം എന്ന് വിചാരിക്കുകഇനി എനിക്ക് ഇലക്ട്രിക് ഫീൽഡിൽ ഇപ്പോഴത്തെ മൂല്യം കണ്ട് പിടിക്കണം പഴയത് എന്ന് പറഞ്ഞാൽ ഇക്വേഷന്റെ ഇടത് വശം ആണ് അതായത് എനിക്ക് ഉം ഉം അറിയാം മൂല്യനിർണ്ണയം ചെയ്യാൻ എനിക്ക് എന്തൊക്കെ വേണം ഇത് ഞാൻ ഇതുപോലെ വരക്കാം ഈ മൂല്യങ്ങൾ ഇങ്ങോട്ട് പോവുന്നു ഈ മൂല്യങ്ങളും നമുക്ക് ഇത് താഴെ വരക്കാം ഇനി നമുക്ക് ഇക്വേഷൻ നാലിലേക്ക് പോവാം ഇക്വേഷൻ 4 പറയുന്നത് Hn ½ നെ കുറിച്ചാണ് ഈ ഈക്വൽ സൈൻ പുതിയതിനെ പഴയതിൽ നിന്നും വേറെയാക്കുന്നു RHS എന്താണ് വേണ്ടത് ഇലക്ട്രിക് ഫീൽഡ് വിദ്യാർത്ഥി n n മാഗ്നെറ്റിക് ഫീൽഡ് എവിടെ വിദ്യാർത്ഥി n ½ ശരിയാണ് ഞാൻ ഇവിടെ ശരം വരച്ചാൽ ഞാൻ എന്താണ് നിങ്ങളോട് പറയുന്നത് ഉദാഹരണം ആയി ഇത് ഇങ്ങോട്ട് പോവുന്നു ഇത് ഇങ്ങോട്ടും ഈ രണ്ട് ഇക്വേഷനുകളും ഞാൻ ഗ്രാഫിക്കലി ഇന്റർപ്രെട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ് അവിടെ ഒരു പകുതി ഗ്രിഡ് ഉണ്ട് ദൂരെ ഒരു ഗ്രിഡ് ഉം ഒരു നിശ്ച്ചിത സമയത്തിൽ ഫീൽഡ് മൂല്യനിർണ്ണയം നടത്താൻ ഇത് രണ്ടും ആവശ്യമാണ് ഉദാഹരണം ആയി പഴയ ഇലക്ട്രിക് ഫീൽഡ് അറിയാൻ എനിക്ക് മാത്രം പോരാ പകുതി ഗ്രിഡിലെ മാഗ്നെറ്റിക് ഫീൽഡ് കൂടി അറിയേണ്ടതുണ്ട് ഈ വരച്ചത് കാണുമ്പോൾ തവള ലീപ് ചെയ്യുന്നത് പോലെ തോന്നാം അതിനാൽ ഇതിനെ ലീപ്ഫ്രോഗ് ഇന്റഗ്രേഷൻ സ്കീം എന്നാണ് വിളിക്കുന്നത് ഇത് FDTD മെത്തോഡിന്റെ ഒരു സ്വഭാവം ആണ് അവിടെയുള്ള ഈ പകുതി ഗ്രിഡിൽ നിന്നും എല്ലാം കിട്ടുന്നു 2D യിൽ നമുക്ക് സ്പേസും ടൈമും ദൃശ്യവൽക്കരിക്കാൻ സാധിക്കും ഉദാഹരണം ആയി ഞാൻ കാണിച്ചു തന്ന സ്റ്റൻസിലിൽ നമുക്ക് മുകളിൽ നിന്നുള്ള കാഴ്ച കാണാം ഇപ്പോൾ എനിക്ക് ടൈം ആക്സിസ് ദൃശ്യവൽക്കരിക്കണം എങ്കിൽ ഞാൻ എന്ത് ചെയ്യണം ഞാൻ ഇത് z ആക്സിസ് ലേക്ക് മാറ്റണം ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലായത് നിങ്ങൾ z ആക്സിസിൽ ടൈം ഇടുന്നു നിങ്ങൾ ഇതിനെ y എന്നും ഇതിനെ x എന്നും വിളിക്കുന്നു ഇതാണ് നിങ്ങളുടെ ചില ടൈം ഇൻസ്റ്റന്ഡിലെ Yee സെൽ ഇത് നിങ്ങളുടെ ആവാം അങ്ങനെ ആണ് ഇത് തുടരുന്നത് അപ്പോൾ മൊത്തത്തിൽ എന്താണ് FDTD സ്കീം ഇത് ഈ അപ്ഡേറ്റ് ഇക്വേഷൻസ് ഉപയോഗിച്ചു ഫീൽഡ്സ് നെ ടൈം സ്റ്റെപ്പുംസ്പേസ് സ്റ്റെപ്പും ചെയ്യും